ഇന്ന് നമ്മൾ വളരെ വേഗം ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കും ഞാൻ രണ്ട് പുസ്തകങ്ങൾ റഫർ ചെയ്തിട്ടുണ്ട് ഒരു പുസ്തകം ബ്രിസ്കോ ഷുലർ ക്ലോസ് Briscoe Schuler and Claus എന്നിവരുടെതാണ് കൂടാതെ മറ്റൊരു പുസ്തകം ഗോമസ് മെജിയ ബെൽകിൻ കാർഡി Gomez Mejia Belkin and Cardy എന്നിവരുടെതാണ് ബ്രിസ്കോ ഷുലർ ക്ലോസ് എന്നിവരുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നേരിട്ട് ഒന്നും എടുത്തിട്ടില്ല ഞാൻ അവരുടെ പുസ്തകത്തിലൂടെ കടന്നുപോയതിനാൽ അവരുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഇവിടെ പരാമർശിക്കാൻ തീരുമാനിച്ച പല കാര്യങ്ങളും മനസ്സിലാക്കി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന ഗ്രൂപ്പ് അംഗത്വ റിവാർഡുകളെയാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ആനുകൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശമ്പളത്തിന് പുറമേ കമ്പനി നിങ്ങൾക്കായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പ്രധാനമായും സംസാരിക്കുന്നത് കഴിഞ്ഞ തവണയും നമ്മൾ സംസാരിച്ച കാര്യമാണിത് കൂടാതെ ഇൻഡയറെക്റ്റ് കോമ്പൻസേഷൻ എന്ന മറ്റൊരു ആശയം ഇവിടെയുണ്ട് ഇൻഡയറെക്റ്റ് കോമ്പൻസേഷൻ പണത്തിന് പുറമേ മറ്റ് ആനുകൂല്യങ്ങൾ അധിക പ്രോത്സാഹനങ്ങൾ അധിക റിവാർഡുകൾ അധിക പ്രതിഫലം എന്നിവയെ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് വരുന്ന പണമാണ് ശമ്പളം കൂടാതെ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെന്തിനും പ്രതിഫലമായി നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് സൌകര്യങ്ങളാണ് ആനുകൂല്യങ്ങൾ അതിനാൽ കമ്പനി നിങ്ങളോട് നന്ദി പറയുന്നത് പോലെയാണ് എന്തുകൊണ്ടാണ് കമ്പനിക്ക് ആനുകൂല്യങ്ങൾ പ്രധാനം ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ പ്രധാനമാണ് ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ എനിക്ക് സ്ഥാപനത്തിൽ നിന്ന് പണം മാത്രമല്ല വേണ്ടത് ഒരു ജീവനക്കാരനെന്ന നിലയിൽ എന്റെ സ്ഥാപനം എന്നെ വിലമതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിവിധ സെഷനുകളിൽ ഞങ്ങൾ ഇത് ചർച്ച ചെയ്തു ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഞാൻ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണെങ്കിൽ ഞാൻ വെറുമൊരു യന്ത്രം മാത്രമല്ല കമ്പനി എന്നെ ഒരു ഔട്ട്പുട്ട് ഉപകരണം പോലെ പരിഗണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അവർക്ക് പണം നൽകുക കൂടാതെ നിങ്ങൾ നൽകുന്ന പണത്തിന് എത്രമാത്രം ജോലി പുറത്തുവരുന്നു അതിനാൽ വിവിധ ആംഗ്യങ്ങളാൽ ആന്തരികമായി പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി കമ്പനി എന്നെ അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കമ്പനി എനിക്കായി എന്തെങ്കിലും ചെയ്യുന്നത് ഒരു ജീവനക്കാരനെന്ന നിലയിൽ എനിക്ക് പ്രധാനമാവുന്നത് ആനുകൂല്യങ്ങൾ ഒരു ശക്തമായ റിക്രൂട്ടിംഗ് ഉപകരണമാണ് നിങ്ങളുടെ ജീവനക്കാർക്ക് നന്ദി പറയാൻ കഴിയുന്ന വഴികളുടെ എണ്ണം നിങ്ങളുടെ ജീവനക്കാരെ പരിപാലിക്കാൻ കഴിയുന്ന വഴികളുടെ എണ്ണം ഇവ മികച്ച പ്രതിഭകളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു വലിയ പ്രേരക ഘടകമാണ് കാരണം എല്ലാവരും നന്നായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞതിന്റെ ആവർത്തനം മാത്രമാണ് കഴിവുള്ള ജീവനക്കാരെ നിലനിർത്താൻ ആനുകൂല്യങ്ങൾ സഹായിക്കുന്നു നിങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളുടെ തുക കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ആനുപാതികമാണെങ്കിൽ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ വിലമതിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ എത്രത്തോളം കമ്പനിയെ സേവിക്കുന്നുവോ അത്രയും വലുതോ അതിലധികമോ നേട്ടങ്ങൾ കമ്പനി നിങ്ങൾക്ക് നൽകുന്നു ചില ആനുകൂല്യങ്ങൾ മാനേജറിയൽ തീരുമാനങ്ങളിൽ ഒരു പങ്കു വഹിക്കുന്നു ഇപ്പോൾ ആനുകൂല്യങ്ങൾ കമ്പനിക്ക് പണം ചിലവാക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഒരു ജീവനക്കാരനെ നിലനിർത്തുന്നതിനുള്ള ചെലവിലേക്ക് കൂട്ടിച്ചേർക്കുന്നു ഇത് ഒരു കമ്പനിയുടെ നടത്തിപ്പിനുള്ള ചെലവ് കൂട്ടുന്നു അതിനാൽ അവർ മാനേജറിയൽ തീരുമാനങ്ങളുടെ ഭാഗമാണ് മനുഷ്യരെന്ന നിലയിൽ പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ജീവനക്കാരെ നമുക്ക് ആവശ്യമായ രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്തുചെയ്യണം അവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്കറിയാവുന്നത് പോലെ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഊർജ നിലകൾ പ്രചോദന നിലവാരങ്ങൾ എന്നിവ ഉണ്ടായിരുന്നിട്ടും കമ്പനിയോടുള്ള അവരുടെ പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ എന്തുചെയ്യണം കൂടാതെ ചില തീരുമാനങ്ങൾ എടുക്കാൻ അത് ഞങ്ങളെ സഹായിക്കുന്നു കൂടാതെ മാനേജർമാർക്കും ആനുകൂല്യങ്ങൾ പ്രധാനമാണ് കാരണം നമ്മുടെ ജീവനക്കാർ എത്രമാത്രം പ്രതീക്ഷിക്കുന്നു അവർക്ക് എന്തെല്ലാം നൽകാമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അതിനാൽ സംഘടനകളിൽ ആനുകൂല്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരു ചർച്ച നടത്തേണ്ടത് പ്രധാനമാണ് അടിസ്ഥാന പദാവലി ബെനിഫിറ്റ്സ് എന്ന ആശയത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പദങ്ങൾ ഒന്ന് കോൺഡ്രിബ്യൂഷൻസ് സംഭാവനകൾ എന്നാൽ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ സ്ഥാപനത്തിന് നൽകിയതാണ് സംഭാവനകൾ എന്നത് ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ ഓർഗനൈസേഷന് ഒരു സമ്പാദ്യമായി നൽകിയതാണ് ഓർഗനൈസേഷനും സംഭാവന നൽകിയേക്കാം അത് സംഭാവനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു ഒന്നുകിൽ കമ്പനി ആ പണത്തിന്റെ ശേഖരത്തിൽ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നൽകുന്നത് അല്ലെങ്കിൽ കമ്പനി എന്താണ് സംഭാവന ചെയ്യുന്നത് എന്നിവയിലേക്കുള്ള നിങ്ങളുടെ ചെറിയ കൂട്ടിച്ചേർക്കലാണ് ഇത് അതിനാൽ കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പോസിറ്റീവ് പ്രതിഫലത്തിന്റെ വലിയ പൂളിലേക്ക് ഞങ്ങൾ നിക്ഷേപിക്കുന്നതാണ് സംഭാവനകൾ പിന്നെ കോഇൻഷുറൻസ് കോഇൻഷുറൻസ് എന്നത് മറ്റൊരു പദമാണ് കോഇൻഷുറൻസ് അർത്ഥമാക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഇൻഷുറൻസിനായി പണം നൽകുന്നു എന്നാണ് അതിനാൽ ഇൻഷുറൻസിനായി ഞങ്ങൾ സഹകരിച്ച് സംഭാവന ചെയ്യുന്നു കോപേയ്മെന്റ് മറ്റൊരു പദമാണ് കോപേയ്മെന്റ് എന്നതിനർത്ഥം നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യത്തിന് നമ്മൾ ഒരുമിച്ച് പണം നൽകുന്നുവെന്നാണ് ചിലപ്പോൾ ഓർഗനൈസേഷനുകൾ നിങ്ങൾക്ക് നൽകുന്നു അവർ നിങ്ങൾക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഒരു കാർ അനുവദിക്കും കൂടാതെ അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ ഞങ്ങളെ സേവിച്ചാൽ നിങ്ങൾക്ക് കാർ സ്വന്തമാക്കാമെന്നും അവർ പറയുന്നു അതിനാൽ തുടക്കത്തിൽ ഞങ്ങൾ ഡൌൺ പേയ്മെന്റ് നൽകും ഔദ്യോഗികവും വ്യക്തിഗതവുമായ ആവശ്യങ്ങൾക്ക് കാർ ഉപയോഗിക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കും കൂടാതെ നിങ്ങൾ അഞ്ച് വർഷം കമ്പനിയിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷം ബാക്കി തുക ഞങ്ങൾക്ക് അടച്ച് നിങ്ങളുടെ പേരിലേക്ക് കാർ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അതിനാൽ അത് നിങ്ങളുടെ സ്വത്തായി മാറുന്നു കൂടാതെ ഈ മുഴുവൻ പ്രക്രിയയെ കോപേമെന്റ് എന്ന് വിളിക്കുന്നു ഫ്ലെക്സിബിൾ ബെനിഫിറ്റ് പ്രോഗ്രാം എന്നത് ഒരു കാര്യമാണ് ഞങ്ങൾ കൂടുതൽ വിശദമായി മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്കോ അല്ലെങ്കിൽ അടുത്ത പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്കോ സംസാരിക്കും പക്ഷേ നിങ്ങളുടെ സ്ഥാനത്തിന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അർഹതയുള്ള ആനുകൂല്യങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫ്ലെക്സിബിൾ ബെനിഫിറ്റ് പ്രോഗ്രാം ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങൾ യോഗ്യനാകും ഒപ്പം ഫ്ലെക്സിബിൾ ബെനിഫിറ്റ് പ്രോഗ്രാം നിങ്ങളുടെ ആവശ്യങ്ങൾ ജീവിതത്തിലെ ഘട്ടം നിങ്ങളുടെ ചായ്വ് എന്നിവയെ ആശ്രയിച്ച് ഈ പൂളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു അതിനാൽ അതിനെ ഫ്ലെക്സിബിൾ ബെനിഫിറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നു സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിയമപരമായി ആവശ്യമായ ആനുകൂല്യങ്ങളാണ് ആദ്യത്തേത് ഞങ്ങൾ അതിനെ ഒരു ആനുകൂല്യം എന്ന് വിളിക്കുന്നു പക്ഷേ അത് നിയമപരമായ ആവശ്യകതയാണ് ഓരോ ഓർഗനൈസേഷനും അതിന്റെ ജീവനക്കാർക്ക് ചില കാര്യങ്ങൾ നൽകുന്നു ശമ്പളത്തിന് പുറമേ അവർ അവരുടെ ജീവനക്കാർക്ക് നൽകണമെന്ന് നിയമം അനുശാസിക്കുന്നു നിയമപരമായി ആവശ്യമായ ആനുകൂല്യങ്ങളുടെ ഒരു മികച്ച ഉദാഹരണമാണ് ആരോഗ്യ ആനുകൂല്യങ്ങൾ കൂടാതെ ഞങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് ആരോഗ്യ ആനുകൂല്യങ്ങൾ ശമ്പളത്തോടുകൂടിയ അവധി പ്രസവാവധി പിതൃത്വ അവധി അല്ലെങ്കിൽ താത്കാലികമോ സ്ഥിരമോ ആയ വൈകല്യങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കുള്ള താമസസൌകര്യം ഇവ നിയമപരമായി ആവശ്യമായ ആനുകൂല്യങ്ങളാണ് അതിനാൽ ഇവയെല്ലാം നിയമപ്രകാരം ആവശ്യമാണ് മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യം ആരോഗ്യ ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ ആരോഗ്യ ആവശ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഓർഗനൈസേഷൻ സമ്മതിക്കുന്നു അതിനാൽ വിവിധ തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് കൂടാതെ ഞങ്ങൾ ഇത് കുറച്ച് കഴിഞ്ഞ് വിശദമായി ചർച്ച ചെയ്യും പിന്നെ റിട്ടയർമൻറ് ചില ഓർഗനൈസേഷനുകൾ പ്രായപൂർത്തിയായതിനാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനിടയുള്ള വർഷങ്ങളിൽ നിങ്ങളെ സഹായിക്കുകയോ കോമ്പൻസേഷൻ നൽകുകയോ ചെയ്യുന്നു കൂടാതെ അത് ചെയ്യുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് വരാം നിങ്ങൾ ഗണ്യമായ വർഷങ്ങളോളം സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷം ഓർഗനൈസേഷനിൽ നിന്ന് വേർപിരിയലാണ് റിട്ടയർമൻറ് അതിനാൽ അത് സാധാരണയായി നിങ്ങൾ ആയിരിക്കുന്ന പ്രായത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനുശേഷം നിങ്ങളെ കമ്പനിക്ക് ആവശ്യമില്ല നിങ്ങൾ വളർന്നു കൊണ്ടിരിക്കാം നിങ്ങൾ വളരെ വൈദഗ്ധ്യമുള്ളവരായിരിക്കാം പക്ഷേ കമ്പനിക്ക് നിങ്ങൾ ഓഫീസിൽ നിന്ന് പോകേണ്ടതുണ്ട് കാരണം പുതിയ ആളുകൾ വരുന്നു കൂടാതെ സ്ഥലം ഒഴിയേണ്ടതുണ്ട് ആളുകൾ വിരമിക്കുന്നതിന് വിവിധ കാരണങ്ങളുണ്ട് പണമടച്ചുള്ള അവധിയാണ് മറ്റൊന്ന് കൂടാതെ എമ്പ്ലോയി സർവീസസ് മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യമാണ് ഒരു ആനുകൂല്യ തന്ത്രം ഞങ്ങൾ എങ്ങനെ തീരുമാനിക്കും ആനുകൂല്യങ്ങളുടെ തന്ത്രം സൂചിപ്പിക്കുന്നത് എന്ത് ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ എങ്ങനെ തീരുമാനിക്കുന്നു എന്നതാണ് ആർക്കാണ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത് കൂടാതെ ഈ ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ആനുകൂല്യ തന്ത്രം മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു ആദ്യത്തേത് ഒരു കമ്പനി അതിന്റെ ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളുടെ സമ്പൂർണ്ണ പാക്കേജായ ബെനിഫിറ്റ്സ് മിക്സ് ആണ് ഈ മിക്സ് മൊത്തം കോമ്പൻസേഷൻ തന്ത്രത്തിന്റെ ഒരു സ്വഭാവമാണ് അതും സംഘടനാ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടണം കമ്പനി എന്താണ് ചെയ്യുന്നത് കമ്പനി അതിന്റെ ജീവനക്കാർക്കായി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കമ്പനിക്ക് അതിന്റെ ജീവനക്കാരിൽ നിന്ന് എന്താണ് വേണ്ടത് അതിന് എത്രമാത്രം പ്രതിബദ്ധത വേണം അതിന് അതിന്റെ ജീവനക്കാർക്കായി എന്തുചെയ്യാൻ കഴിയും എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂടാതെ കമ്പനിയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ് അതിനാൽ അതെല്ലാം ആനുകൂല്യ തന്ത്രം രൂപപ്പെടുത്തുന്നു ബെനിഫിറ്റ്സ് മിക്സ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളുമായി സ്വയം വിന്യസിക്കണം കൂടാതെ ആനുകൂല്യങ്ങളുടെ മിശ്രിതം ആസൂത്രണം ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ സവിശേഷതകൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഞങ്ങൾ ലഡാക്ക് പോലുള്ള ഉയർന്ന പ്രദേശത്താണ് അധിഷ്ഠിതമായിരിക്കുന്നത് ഇപ്പോൾ ലഡാക്ക് ദൂരെയുള്ള പ്രദേശമാണ് ഇത് ഹിമാലയത്തിൽ വളരെ ഉയർന്നതാണ് നിങ്ങൾക്കറിയാമോ കൂടാതെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആളുകൾക്ക് മിക്കവാറും അവിടെ പോകുന്നത് അസാധ്യമായിരുന്നു അല്ലെങ്കിൽ കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാധാരണക്കാർക്ക് അവിടെ പോകുന്നത് അസാധ്യമായിരുന്നു അവിടെ ഒരു സൈനിക താവളമേ ഉണ്ടായിരുന്നുള്ളൂ കൂടാതെ നിങ്ങൾക്കറിയാമോ വിമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തീർച്ചയായും ഇപ്പോൾ ടൂറിസം ഏറ്റെടുത്തു അതിനാൽ ഇപ്പോൾ ആളുകൾ അവിടെ പോകാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ആ പ്രദേശത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത് വളരെ തണുപ്പാണ് ഇത് ഹിമാലയത്തിലാണ് ഭൂപ്രകൃതി വളരെ പരുക്കനാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് കാര്യങ്ങൾ അവിടെ എത്തിക്കാൻ കഴിയില്ല അതിനാൽ ആ സ്ഥലത്തെ കാലാവസ്ഥയെ ആശ്രയിച്ച് ലഭ്യമായത് ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ അവിടെ ഷോപ്പ് സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ ഒരു ടൂറിസ്റ്റ് പാർക്ക് സ്ഥാപിക്കാൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം അല്ലെങ്കിൽ അവിടെ ഒരു വിന്റർ സ്പോർട്സ് പാർക്ക് സ്ഥാപിക്കാൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം കൂടാതെ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ ജന്മനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് എന്തെങ്കിലും സംഭാവനകൾ ആവശ്യമായി വന്നേക്കാം കാരണം അവിടെ വളരെ തണുപ്പാണ് ചിലപ്പോൾ കുടുംബങ്ങൾക്ക് അവിടെ പോകാൻ കഴിയില്ല അവർക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഒരുപക്ഷേ ജീവനക്കാർക്ക് ഊഷ്മളമായോ ശീതകാല ജാക്കറ്റുകളോ നിലനിർത്താൻ നിങ്ങൾ അധിക പണം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാരുടെ കോളനിയിൽ ഒരു ജനറേറ്റർ സ്ഥാപിക്കേണ്ടി വന്നേക്കാം അങ്ങനെ വൈദ്യുതി മുടങ്ങാതിരിക്കാനും അവർക്ക് ചൂടായി തുടരാനും കഴിയും അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ അവർക്ക് ശീതകാല ഷൂസ് നൽകേണ്ടതുണ്ട് അതിനാൽ അത് ഒരു നേട്ടമാണ് ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായും നിങ്ങൾക്കറിയാം അവരുടെ ജോലിക്ക് മാത്രമല്ല അവരുടെ വ്യക്തിപരമായ ഉപയോഗത്തിനും നിങ്ങൾ അവർക്ക് ശൈത്യകാല ഷൂകളും ശൈത്യകാല ജാക്കറ്റുകളും നൽകേണ്ടി വന്നേക്കാം അവർക്ക് ചൂട് നിലനിർത്താൻ എന്തെങ്കിലും വഴി നൽകുക കൂടാതെ ഒരുപക്ഷേ നിങ്ങൾ അവർക്ക് മികച്ച ആരോഗ്യ ഇൻഷുറൻസ് നൽകേണ്ടതുണ്ട് അതിനാൽ ഇതാണ് പ്രാദേശിക ഭൂപ്രകൃതി തുടർന്ന് തൊഴിലാളികളുടെ സവിശേഷതകൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരുതരം തൊഴിലിലാണ് അവിടെ ധാരാളം യുവതികൾ ഉണ്ട് അവർ ഒന്നുകിൽ വിവാഹിതരാകുകയോ അടുത്തിടെ വിവാഹിതരാകുകയോ ചെയ്യുന്നു കൂടാതെ നിങ്ങൾ പ്രസവാവധിക്കായി ഒരു വലിയ വ്യവസ്ഥ സൂക്ഷിക്കേണ്ടതായി വന്നേക്കാം ഒരുപക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ധാരാളം യുവതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിശു സംരക്ഷണ സൌകര്യങ്ങൾ ഉണ്ടായിരിക്കണം കാരണം അവർ തങ്ങളുടെ കുട്ടികളെ മറ്റാരുടെയെങ്കിലും സംരക്ഷണത്തിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ചെറിയ കുട്ടികളെ പരിപാലിക്കാൻ ആരുമില്ലായിരിക്കാം അതിനാൽ നിങ്ങളുടെ ഓഫീസ് പരിസരത്ത് ഒരു ക്രെഷ് ഉണ്ടായിരിക്കണം അതിനാൽ അവർക്ക് അവരുടെ കുട്ടികളെ കൊണ്ടുവരാനും ഇറക്കാനും കഴിയും പിന്നെ മക്കളെ ആരു നോക്കും എന്നറിയാതെ വിഷമിക്കാതെയും ജോലിക്ക് വരാനാകും അതിനാൽ ഇതെല്ലാം നിങ്ങളുടെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ എന്താണെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ അവർക്ക് എന്താണ് നൽകുന്നത് പ്രധാനമായും അവർക്ക് ആവശ്യമുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് പറയാം ശരി ഞാൻ എല്ലാവർക്കും ഒരു കമ്പ്യൂട്ടറും ഡെസ്ക്ടോപ്പും തരാം ഞാൻ എല്ലാവർക്കും ഒരു മൊബൈൽ ഫോൺ തരാം പക്ഷേ ഒരുപക്ഷേ അവർക്ക് ഇതിനകം സെൽഫോണുകൾ ഉണ്ടായിരിക്കാം ഈ ദിവസങ്ങളിൽ സെൽ ഫോണുകളുടെ മാർജിനൽ യൂട്ടിലിറ്റി ശൂന്യമാണ് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഇതിനകം രണ്ട് മൊബൈൽ ഫോണുകൾ ഉണ്ട് മൂന്നാമത്തെ സെൽ ഫോണുമായി ഞാൻ എന്തുചെയ്യും എനിക്ക് അതിന്റെ ആവശ്യമില്ല പകരം ദയവായി ആ പണം ചെലവഴിക്കേണ്ടത് എന്റെ പരിശീലനത്തിനായിരിക്കാം ഒരുപക്ഷേ എനിക്ക് ഒരു നല്ല ബാഗ് തരിക അങ്ങനെയുള്ള എന്തെങ്കിലും അതിനാൽ അതെല്ലാം നിങ്ങളുടെ ആനുകൂല്യ തന്ത്രത്തിന്റെ ഭാഗമാണ് ആനുകൂല്യങ്ങളുടെ പാക്കേജിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് ഏത് തരത്തിലുള്ള നേട്ടങ്ങളാണ് നിങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ തുക വരുന്നു ആനുകൂല്യങ്ങൾക്കായി എത്ര തുക കമ്പനിക്ക് താങ്ങാൻ കഴിയും ശമ്പളം പ്രവർത്തന ചെലവിലേക്ക് പോകുന്നു ആനുകൂല്യങ്ങൾ പ്രവർത്തന ചെലവിലേക്ക് പോകുന്നു എല്ലാത്തിനുമുപരി ഞങ്ങൾ ബിസിനസ്സിൽ തുടരണം നമുക്ക് ലാഭമുണ്ടാക്കണം സ്ഥിരത കൈവരിക്കാനോ വളരാനോ നമ്മുടെ കയ്യിൽ കുറച്ച് മിച്ച പണം ഉണ്ടായിരിക്കണം അതിനാൽ ഞങ്ങൾ ജീവനക്കാർക്ക് അവരുടെ ശമ്പളം നൽകിയ ശേഷം നമ്മുടെ കൈയിൽ അവർക്ക് സുഖമായിരിക്കാൻ സഹായിക്കുന്നതിന് നൽകാൻ എത്ര പണമുണ്ട് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ പക്കലുള്ള എല്ലാ പണവും എല്ലാ ബാലൻസും ആകാൻ പാടില്ല നിങ്ങളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണെങ്കിൽ ഒരുപക്ഷേ അതാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കൂടാതെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ആ പണം നിങ്ങൾ എന്ത് ആനുകൂല്യങ്ങൾ ചേർക്കുന്നു എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ സഹായിക്കും തുടർന്ന് ആനുകൂല്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള വഴക്കം ഇത് ഒരു ജീവനക്കാരന് അവരുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്കനുസരിച്ച് ആനുകൂല്യങ്ങളുടെ പാക്കേജ് ക്രമീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ അളവാണ് അതിനാൽ എത്രമാത്രം വഴക്കം അവർക്ക് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കൂടാതെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫ്ലെക്സിബിൾ ബെനിഫിറ്റ് പ്രോഗ്രാമായ അഡ്മിനിസ്ട്രേഷന്റെ വെല്ലുവിളികളിലേക്ക് വരും പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ എത്രമാത്രം വഴക്കം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു കമ്പനിക്ക് എത്രത്തോളം താങ്ങാൻ കഴിയും നിയമപരമായി ആവശ്യമായ ആനുകൂല്യങ്ങളിൽ യുഎസിലെ പോലെ സാമൂഹിക സുരക്ഷയും ഉൾപ്പെടുന്നു വിരമിച്ചവർക്കും വികലാംഗർക്കും മരിച്ചവരുടെ അതിജീവിച്ചവർക്കും വരുമാനമുണ്ട് മരിച്ച തൊഴിലാളികൾ രോഗബാധിതരായ തൊഴിലാളികളല്ല കൂടാതെ പ്രായമായവർക്കുള്ള ആരോഗ്യ സംരക്ഷണം അതിനാൽ ജോലി ചെയ്യുന്ന എല്ലാവരും സാമൂഹിക സുരക്ഷയ്ക്കായി അൽപ്പം സംഭാവന ചെയ്യുന്നു കൂടാതെ എല്ലാം കൂട്ടിച്ചേർക്കുന്നു കാരണം ഓരോ ജീവനക്കാരനും കുറച്ച് സംഭാവന ചെയ്യുന്നു കൂടാതെ അത് സാമൂഹിക സുരക്ഷയ്ക്കായി സർക്കാർ ശേഖരിക്കുന്നു കൂടാതെ ശേഖരിക്കുന്നതെന്തും ഡ്യൂട്ടിക്കിടെ മരിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഡ്യൂട്ടിക്കിടെ മരിക്കുന്ന ആളുകളുടെ കുടുംബങ്ങൾക്കോ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനും പണമില്ലാത്ത പ്രായമായവർക്ക് അല്ലെങ്കിൽ സ്വയം പരിപാലിക്കാൻ അല്ലെങ്കിൽ അവരെ പരിപാലിക്കാൻ ആളില്ലാത്തവർക്ക് ജീവിക്കാനുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും വിതരണം ചെയ്യുന്നു അതിനാൽ സർക്കാർ ഒരു അറ്റത്ത് നിന്ന് പണം ശേഖരിക്കുകയും ആ പണം ഉപയോഗിക്കാൻ കഴിയുന്ന സമൂഹത്തിലെ ആളുകൾക്ക് കൈമാറുകയും ചെയ്യുന്നു കൂടാതെ ഇതിനെ സോഷൽ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നു വിരമിക്കൽ വരുമാനം ചില സ്ഥാപനങ്ങളിൽ നിയമപരമായി ആവശ്യമായ ഒരു ആനുകൂല്യമാണ് മിക്ക കേന്ദ്രസർവീസുകളുടെയും പെൻഷൻ സമ്പ്രദായം ഇന്ത്യൻ സർക്കാർ ഇല്ലാതാക്കി പക്ഷേ അത് സായുധ സേനയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു കൂടാതെ നിങ്ങളുടെ ജോലി വർഷങ്ങൾ അവസാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ മാത്രമാണിത് ഞങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ സംവിധാനമില്ല അതിനാൽ ഞങ്ങൾക്ക് ഈ സംഭാവനാ പെൻഷൻ പദ്ധതികളുണ്ട് കൂടാതെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സേവനങ്ങളിൽ പെൻഷൻ ഉണ്ടായിരുന്നു കൂടാതെ നിങ്ങൾ ഏത് സ്ഥാപനത്തിന്റെ ഭാഗമാണ് എന്നതിനെ ആശ്രയിച്ച് നിയമപരമായി ആവശ്യമായ മറ്റൊരു ആനുകൂല്യമാണ് മെഡിക്കൽ കെയർ ലാഭത്തിന്റെ തുകയും ശതമാനവും വ്യത്യാസപ്പെടാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാർക്ക് നിങ്ങൾ നൽകുന്നത് വ്യത്യാസപ്പെടാം ഉദാഹരണത്തിന് ഖനന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പൊള്ളൽ മൈനുകളുടെ തകർച്ച എന്നിവ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സൈറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് നിയമപരമായ ആവശ്യകതയാണ് അതിനാൽ നിങ്ങൾക്കറിയാമോ അത്തരം അടിയന്തിര സേവനങ്ങൾ തികച്ചും ആവശ്യമാണ് ആ പ്രത്യേക ജോലിയിൽ വളരെ സാധാരണമായ ഈ അടിയന്തിര സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ഒരു ആരോഗ്യ സൌകര്യം അവരുടെ ഖനന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കണം മറുവശത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് അതിന്റെ സമുച്ചയത്തിൽ ഒരു ബേൺസ് യൂണിറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ആളുകൾ അവരുടെ ഓഫീസുകളിൽ ഇരിക്കുകയും ഡെസ്ക് വർക്ക് ചെയ്യുകയും ചെയ്യുന്നിടത്ത് ഒരു ശ്വസന യൂണിറ്റ് ആവശ്യമില്ല ജനങ്ങളുടെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ആരോഗ്യ കേന്ദ്രം അവർക്ക് ആവശ്യമില്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ വളരെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അത് ആവശ്യമാണ് സർവൈവർ ബെനിഫിറ്റ്സ് ഉണ്ട് ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ആശ്രിതരായ കുടുംബാംഗങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതിയാണിത് അതിനാൽ ഞാൻ വീണ്ടും സായുധ സേനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം എനിക്ക് അവരെക്കുറിച്ച് മറ്റ് പല തൊഴിലുകളേക്കാളും അൽപ്പം കൂടുതലറിയാം കൂടാതെ സായുധ സേന വളരെ അപകടകരമായ ഒരു തൊഴിലാണെന്ന് നിങ്ങൾക്കറിയാം ആളുകളെ ഫീൽഡിൽ വിന്യസിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കേൾക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ആളുകൾ അംഗവൈകല്യമുള്ളവരായി മടങ്ങിവന്നേക്കാം അവർ ഡ്യൂട്ടി ലൈനിൽ മരിച്ചേക്കാം കൂടാതെ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരുടെ കുടുംബങ്ങളെ പരിപാലിക്കുന്നതിനായി ഞങ്ങൾക്ക് പെൻഷൻ പദ്ധതികളുണ്ട് അവരുടെ ആശ്രിതർക്ക് ജീവിതകാലം മുഴുവൻ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ നൽകുന്നു അതിനാൽ ഇത് അതിജീവിക്കുന്ന ആനുകൂല്യമാണ് അതിജീവിക്കുന്ന ആനുകൂല്യത്തിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ആശ്രിത പങ്കാളിയോ അല്ലെങ്കിൽ ആശ്രിതരായ ഭിന്നശേഷിക്കാരനായ കുട്ടിയോ ഉണ്ടെങ്കിൽ സ്വയം അല്ലെങ്കിൽ തന്നെത്തന്നെ നോക്കാൻ കഴിയാതെ വന്നേക്കാം അതിനാൽ ഈ ആനുകൂല്യങ്ങൾ പാക്കേജിനൊപ്പം ലഭിക്കും തൊഴിലാളിയുടെ നഷ്ടപരിഹാരം എന്ന് വിളിക്കപ്പെടുന്ന ചിലതും ഞങ്ങൾക്കുണ്ട് തൊഴിലാളികളുടെ നഷ്ടപരിഹാരം ജോലി സംബന്ധമായ പരിക്കുകളോ അസുഖങ്ങളോ അനുഭവിക്കുന്ന ആളുകൾക്ക് വൈദ്യ പരിചരണം തുടർച്ച പുനരധിവാസ ചെലവുകൾ എന്നിവ നൽകുന്നു അതിനാൽ നിങ്ങൾ ജോലിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളെയോ നിങ്ങളുടെ ചികിത്സാ ചെലവുകളോ പരിപാലിക്കേണ്ടത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് വീണ്ടും ഞാൻ സായുധ സേനയുടെ ഉദാഹരണം എടുക്കുന്നു പലപ്പോഴും ആളുകൾ യുദ്ധത്തിന് പോകുമ്പോൾ അവർ ഫീൽഡിൽ ആയിരിക്കുമ്പോൾ അവർക്ക് പരിക്കേൽക്കാറുണ്ട് അവർക്ക് ഒരു അവയവം നഷ്ടപ്പെട്ടേക്കാം അവർ തിരികെ വരുന്നു അവർക്ക് അവരുടെ ജോലിയിൽ തുടരാൻ കഴിയില്ല കൂടാതെ ആ സമയത്ത് പരിക്കിന്റെ സ്വഭാവമനുസരിച്ച് സർക്കാർ ജോലിക്ക് തന്നെ ആനുകൂല്യ പാക്കേജ് നൽകുകയും അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ചില ബദൽ തൊഴിൽ നൽകുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ചില തിരഞ്ഞെടുപ്പുകൾ അവർക്ക് നൽകിയിരിക്കുന്നു അത് അവരെ സ്വയം നിലനിർത്താൻ സഹായിക്കും അത് അവർക്ക് ഉപജീവനമാർഗം കണ്ടെത്താൻ സഹായിക്കും കാരണം അവർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ചെയ്യാൻ കഴിയില്ല കൂടാതെ ഡ്യൂട്ടി ലൈനിൽ അവർക്ക് പരിക്കേറ്റു അവർക്ക് ഒരു ബദൽ തൊഴിൽ നൽകുന്നു കൂടാതെ അത് സജ്ജീകരിക്കാൻ ആവശ്യമായ പണം അവർക്ക് നൽകുന്നു കൂടാതെ അത് തൊഴിലാളിയുടെ നഷ്ടപരിഹാരത്തിന്റെ ഭാഗമാണ് അതുപോലെ അഗ്നിശമന സേനാംഗങ്ങൾ അവരുടെ ജോലി വളരെ അപകടകരമാണ് അതിനാൽ അവർക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ അടിസ്ഥാന സൌകര്യങ്ങൾ അവരുടെ ആരോഗ്യ ചെലവുകൾ എന്നിവ ശ്രദ്ധിക്കുന്നു കൂടാതെ ചില സന്ദർഭങ്ങളിൽ അവർക്ക് ഒരു പോയിന്റ് വരെ റീഇംബേഴ്സ്മെന്റും നൽകുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ അവർക്ക് അവരുടെ ജീവിതം സുഖമായി ജീവിക്കാൻ കഴിയും അതിനാൽ ഇതെല്ലാം തൊഴിലാളിയുടെ നഷ്ടപരിഹാരത്തിന് കണക്കാക്കുന്നു ഇതിനായി നിങ്ങളുടെ സമ്പാദ്യശേഷി എന്തായിരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു നിശ്ചിത തുക കണക്കാക്കുന്നു നിങ്ങൾ വിരമിക്കുന്ന സമയം വരെ നിങ്ങൾക്ക് പരിക്കേറ്റിട്ടില്ലെങ്കിൽ അത് കണക്കാക്കുന്നത് അപ്പോഴാണ് സൂത്രവാക്യങ്ങളുണ്ട് കൂടാതെ അത് നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഒറ്റത്തവണയായി അല്ലെങ്കിൽ തവണകളായി നിങ്ങൾക്ക് വിതരണം ചെയ്യും നിങ്ങൾ എങ്ങനെ തൊഴിലാളിയുടെ നഷ്ടപരിഹാരം കൈകാര്യം ചെയ്യുന്നു ഒരു എച്ച്ആർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾ അറിയേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ സുരക്ഷിതമായ വർക്ക് നടപടിക്രമങ്ങൾ നൽകേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു കെട്ടിടത്തിലും നിർമ്മാണ മേഖലയിലും ആളുകൾക്ക് ഹാർഡ് തൊപ്പികൾ നൽകാൻ ഇപ്പോൾ നിയമപ്രകാരം നിർബന്ധിതമാണെന്ന് ഞാൻ കരുതുന്നു വെൽഡിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആൻറിഗ്ലെയർ ഗ്ലാസുകളോ സ്ക്രീനുകളോ നൽകേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ് വെൽഡർമാർക്ക് അതിലൂടെ കാണാനും അവരുടെ ജോലി ചെയ്യാനും കഴിയും അത് ജീവനക്കാരന്റെ ഉത്തരവാദിത്തമല്ല അവർ ചൂടുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് കയ്യുറകൾ നൽകണം ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ ഫയർപ്രൂഫ് കയ്യുറകൾ നൽകേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ ഇടപാടിന്റെ ഭാഗമാണ് കൂടാതെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത ഗണ്യമായി കുറയുന്നു മറ്റൊരു കാര്യം തൊഴിലാളിയുടെ നഷ്ടപരിഹാരത്തിന്റെ ക്ലെയിമുകൾ ഓഡിറ്റ് ചെയ്യേണ്ടത് ഒരു എച്ച്ആർ മാനേജർ എന്ന നിലയിൽ അത്യന്താപേക്ഷിതമാണ് ഇത് വളരെ ശോചനീയമായ പ്രശ്നമാണ് ഒരു പൊതുവേദിയിൽ ഞാൻ അത് പരാമർശിക്കണമോ എന്ന് എനിക്കറിയില്ല നിർഭാഗ്യവശാൽ ചില സമയങ്ങളിൽ ചില അവിഹിത ഘടകങ്ങൾ തൊഴിലാളിയുടെ നഷ്ടപരിഹാരത്തിന്റെ ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയുണ്ട് കൂടാതെ അത് ഓർഗനൈസേഷന് വളരെയധികം ചിലവാക്കിയേക്കാം ചിലപ്പോൾ ഇത് സംഭവിക്കാം അത്തരം സന്ദർഭങ്ങളിൽ അത്തരം തെറ്റായ ക്ലെയിമുകളോ തെറ്റായ ക്ലെയിമുകളുടെ സാധ്യതയോ ഒഴിവാക്കാൻ ഒരു എച്ച്ആർ മാനേജർ എന്ന നിലയിൽ നിങ്ങൾ എല്ലാ ക്ലെയിമുകളും സൂക്ഷ്മമായി പരിശോധിക്കുകയും ക്ലെയിമിന്റെ ആധികാരികത പരമാവധി ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ക്ലെയിമുകൾ ഓഡിറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് മറ്റൊന്ന് ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുമായി തൊഴിലാളിയുടെ നഷ്ടപരിഹാരം വിന്യസിക്കുക ഇപ്പോൾ പലപ്പോഴും ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകൾ നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ നൽകുന്നു തൊഴിലാളിയുടെ നഷ്ടപരിഹാര ആനുകൂല്യങ്ങളോ തൊഴിലാളികളുടെ നഷ്ടപരിഹാരമായി നിങ്ങൾ അവർക്ക് നൽകുന്നതോ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിന്റെ ആവർത്തനം ആണെങ്കിൽ അത് സ്ഥാപനത്തെ സഹായിക്കില്ല അതിനാൽ നിങ്ങൾക്കറിയാമോ ഈ ക്ലെയിമുകൾ ഓരോ കേസിന്റെ അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനാൽ അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്താണ് പരിരക്ഷിക്കുന്നതെന്ന് കാണാനും മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷിക്കാത്തത് അവർക്ക് നൽകാനും ഇത് എല്ലായ്പ്പോഴും സഹായിക്കും അതിനാൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയത് ജീവനക്കാരൻ തന്നെ ഇതിനായി നിങ്ങൾക്ക് പണം അനുവദിച്ചിട്ടുണ്ട് അതിനാൽ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് ഇതിനകം തന്നെ അവരുടെ ചിലവുകളുടെ ഒരു ഭാഗം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ജീവനക്കാരന് വളരെ സഹായകരമാകും നിങ്ങൾ പറയുകയാണ് ശരി അവർ ഇത് ചെയ്യുന്നതിനാൽ ഞാൻ ഇത്ര നോക്കിക്കോളാം എനിക്കും അത്രതന്നെ ചിലവാകും പക്ഷേ നിങ്ങൾക്ക് ഗുണഭോക്താവെന്ന നിലയിൽ കൂടുതൽ എന്തെങ്കിലും ലഭിക്കും അത് നിങ്ങൾക്ക് കൂടുതൽ സുഖകരമാക്കും നിങ്ങളുടെ ജീവനക്കാർക്ക് ഉപകരണങ്ങൾ നൽകുന്നതിന് പുറമേ ജോലി സംബന്ധമായ പരിക്കുകൾ കുറയ്ക്കുന്നതിന് സുരക്ഷിതമായ വർക്ക് ഡിസൈൻ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് ജോലിസ്ഥലവും കഴിയുന്നത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുന്നത് എല്ലായ്പ്പോഴും സഹായകരമാണ് എനിക്ക് ഇതിൽ വേണ്ടത്ര ഊന്നൽ നൽകുന്നത് നിർത്താൻ കഴിയില്ല പരിക്കേറ്റവർക്കും താൽക്കാലികമായി അംഗവൈകല്യമുള്ളവർക്കും വേണ്ടി പരിഷ്കരിച്ച ഡ്യൂട്ടി പ്ലാനുകൾ നൽകൽ ഉദാഹരണത്തിന് പരിക്കിൽ നിന്ന് കരകയറുന്ന സമയത്ത് ഒരു ജീവനക്കാരന് ഫ്ലെക്സിബിൾ ജോലി സമയം അനുവദിക്കുക അല്ലെങ്കിൽ ഷോപ്പ് ഫ്ലോർ ഡ്യൂട്ടികൾ മാറ്റാം വീണ്ടെടുക്കൽ സമയത്ത് ഷോപ്പ് ഫ്ലോർ തൊഴിലാളികളെ ഡെസ്ക് ജോലികളിലേക്ക് മാറ്റാം അതിനാൽ ഒരു കടയിലെ ഫ്ലോറിലെ ജോലിക്കാരന് ഡ്യൂട്ടിക്കിടെ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആണെങ്കിൽ നിങ്ങൾക്കറിയാമോ ആർക്കെങ്കിലും പരിക്കുണ്ട് ഞങ്ങൾ അവരോട് പറയുന്നു ശരി നിങ്ങൾ ജോലിക്ക് വരുന്നു പക്ഷേ നിങ്ങൾക്ക് ശാരീരികമായി കാര്യങ്ങൾ ഉയർത്താൻ കഴിഞ്ഞേക്കില്ല അതിനാൽ നിങ്ങൾക്ക് ഈ ഡെസ്ക് വർക്ക് ശ്രദ്ധിക്കാം അതിനാൽ ചില ഫ്ലെക്സിബിലിറ്റി അനുവദിച്ചാൽ അത് എല്ലായ്പ്പോഴും ജീവനക്കാരെ കൂടുതൽ വിലമതിക്കാൻ സഹായിക്കുന്നു സ്ഥാപനം തങ്ങളുടെ കുടുംബമാണെന്ന് ഞങ്ങളുടെ ജീവനക്കാർക്ക് തോന്നണം അവർക്ക് സംഘടനയെ ആശ്രയിക്കാം സ്ഥാപനം വെറുമൊരു ജോലിസ്ഥലമല്ല അത് തങ്ങളുടെ കുടുംബമാണെന്ന് ജീവനക്കാർക്ക് തോന്നിത്തുടങ്ങുമ്പോൾ പ്രതിബദ്ധത വർദ്ധിക്കുന്നു പ്രതിബദ്ധത കൂടുമ്പോൾ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കും ജോലിയുടെ ഗുണനിലവാരം വളരെ മികച്ചതായി മാറുന്നു ഒപ്പം എല്ലാവരും സന്തോഷത്തിലാണ് സംഘടന സന്തോഷത്തിലാണ് ജീവനക്കാരൻ സന്തോഷവാനാണ് ശമ്പളമില്ലാത്ത അവധി ശമ്പളമില്ലാത്ത അവധി എന്നതിനർത്ഥം നിങ്ങൾ ജീവനക്കാരന് അവധി നൽകുന്നു അവർക്ക് തിരികെ വരാമെന്നും അവർക്ക് വീണ്ടും ജോലിയിൽ ചേരാമെന്നും നിങ്ങൾ അവർക്ക് ഉറപ്പ് നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് ശമ്പളമില്ലാത്ത അവധി നൽകാവുന്ന ചില വ്യവസ്ഥകൾ വ്യക്തിപരമായ കാരണങ്ങൾ കുടുംബ പരിചരണം കുടുംബത്തിലെ മരണം മുതലായവ ആയിരിക്കും തുടർ വിദ്യാഭ്യാസം ഇന്ത്യൻ സർക്കാർ പഠന അവധി നൽകുന്നു ആവശ്യകതകൾ എന്താണെന്നോ വ്യവസ്ഥകൾ എന്താണെന്നോ എനിക്കറിയില്ല പക്ഷേ ചിലവുകളുടെ ഒരു ഭാഗം അടച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു അതിന്റെ ഒരു ഭാഗം അടയ്ക്കാത്തതോ പകുതി അടച്ചതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം പക്ഷേ എന്തായാലും നിങ്ങൾക്ക് അവരോട് പറയാം ശരി നിങ്ങൾക്ക് പോയി വിദ്യാഭ്യാസം നേടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ബിരുദം നേടണമെങ്കിൽ പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ജോലിയിലേക്ക് മടങ്ങാം നിങ്ങളുടെ ജോലി ഞാൻ എടുത്തുകളയില്ല പക്ഷേ ഇതിന് ഞാൻ നിങ്ങൾക്ക് പണം നൽകില്ല അത് കുഴപ്പമില്ല പിന്നീട് ഒരു പ്രമോഷനോ ഷിഫ്റ്റോ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ധാരാളം ആളുകൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടാതെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഡ്യൂട്ടിക്ക് പുറത്തോ നിങ്ങളുടെ സ്വകാര്യ അക്കൌണ്ടിലോ നിങ്ങൾക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ പക്ഷേ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജോലിയിൽ പ്രതിജ്ഞാബദ്ധരാണ് കൂടാതെ ജീവനക്കാരെ അവർ യോഗ്യരാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ ജോലിസ്ഥലത്തേക്ക് തിരികെ വരാൻ അനുവദിക്കുന്നത് എല്ലായ്പ്പോഴും സന്തോഷകരമാണ് ശമ്പളമില്ലാത്ത അവധിക്ക് ശേഷം ജോലിയിലേക്ക് മടങ്ങുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ രാജ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം പക്ഷേ ഒരു സ്ഥാപനമെന്ന നിലയിൽ ജീവനക്കാരുടെ സൌഹൃദം പുലർത്തുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് അതിനാൽ ഒരാൾക്ക് തൊഴിൽ ഉറപ്പ് വരുത്താൻ കഴിയും അതുകൊണ്ടാണ് ഇതിനെ ശമ്പളമില്ലാത്ത അവധി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഫൈറിങ് അല്ലെങ്കിൽ സെവർൻസ് എന്ന് വിളിക്കും എല്ലാം ശരിയാണെങ്കിൽ അവധിയിൽ തുടരുന്ന സമയത്തുള്ള ജോലിയുടെയോ സ്ഥാനത്തിന്റെയോ തുല്യമോ ഉയർന്നതോ ആയ ജോലിയുടെ പുനർ നിയമനം നൽകണം മെച്ചപ്പെട്ട യോഗ്യതയോടെ അവർ തിരികെ വരുകയും നിങ്ങൾ അവരെ അവർ പോയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ താഴ്ന്ന നിലയിലായ ഒരു സ്ഥാനത്ത് നിർത്തുകയും ചെയ്താൽ അപ്പോൾ ജീവനക്കാരൻ വളരെയധികം തരംതാഴ്ത്തപ്പെടും അവർക്കത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഒരു സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ച് അവർക്ക് അതേ സ്ഥാനം നൽകുക അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അവർ ഒരു അധിക ബിരുദം നേടിയാൽ നിങ്ങൾ അവർക്ക് ഒരു പ്രമോഷൻ നൽകുക അത് കമ്പനിക്ക് എപ്പോഴും സഹായകരമായിരിക്കും കൂടാതെ നിരുപാധികമായ ശമ്പള വർദ്ധനവിന്റെ രസീത് ഉദാഹരണത്തിന് ക്ഷാമബത്ത ഇൻക്രിമെന്റുകൾ മുതലായവ ഞാൻ ഉദ്ദേശിച്ചത് പതിവായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് ആ ശമ്പള വർദ്ധനവ് നൽകുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് ശമ്പള കമ്മീഷൻ വരുന്നു ശമ്പള നിരക്കുകൾ പരിഷ്കരിക്കുന്നു ജീവനക്കാരൻ പോകുമ്പോൾ ആറാം ശമ്പള കമ്മീഷൻ ആയിരിക്കാം ജീവനക്കാരൻ ശമ്പളമില്ലാത്ത അവധി കഴിഞ്ഞ് മടങ്ങിവരുമ്പോൾ അത് ഏഴാം ശമ്പള കമ്മീഷനാവാം നിങ്ങൾക്ക് ഇല്ല ഇല്ല നിങ്ങൾ ഇത്രയും വർഷം സേവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ നിങ്ങൾക്ക് ആറാമത്തെ ശമ്പള പ്രകാരം തരാം എന്ന് പറയാൻ കഴിയില്ല ഒന്ന് അത് സങ്കീർണ്ണമാണ് രണ്ട് അത് ജീവനക്കാരനോടുള്ള അനീതിയാണ് അതിനാൽ സേവനത്തിൽ ഇടവേളയില്ല ഇത് സേവനത്തിലെ ഇടവേളയായി കണക്കാക്കരുത് ഇത് ശമ്പളമില്ലാത്ത എന്നാൽ അംഗീകൃത അവധിയാണ് സ്വമേധയാ ഉള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് ഞങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് ഞങ്ങൾക്ക് പരമ്പരാഗത ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അത് ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്നു ഒരു ഇൻഷുറൻസ് കമ്പനി നൽകുന്ന പരമ്പരാഗത ആരോഗ്യ ഇൻഷുറൻസ് ഞങ്ങൾക്കുണ്ട് ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു നിശ്ചിത വാർഷിക ഫീസിൽ സമഗ്രമായ മെഡിക്കൽ സേവനങ്ങൾ നൽകുന്ന ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായ ഹെൽത്ത് മെയിന്റനൻസ് ഓർഗനൈസേഷൻ ഞങ്ങൾക്കുണ്ട് അത് അവർ എങ്ങനെയും ചെലവഴിക്കുന്നതിനേക്കാൾ കുറവാണ് തിരഞ്ഞെടുത്ത പ്രൊവൈഡർ ഓർഗനൈസേഷനുകൾ നിങ്ങൾ പറയുന്നു ശരി നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആശുപത്രികളിൽ പോകാം കൂടാതെ അവർ നിങ്ങളെ പരിപാലിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആരോഗ്യ സേവിംഗ്സ് അക്കൌണ്ടും ഉണ്ടായിരിക്കാം അതിനാൽ അവരുടെ ആരോഗ്യപ്രശ്നങ്ങൾക്ക് സംഭാവന ചെയ്യുന്നതിനുള്ള ചില വഴികൾ നിങ്ങൾക്ക് നൽകാം കൂടാതെ ഉയർന്ന ഡിഡക്റ്റബിളുള്ള ഒരു യോഗ്യതയുള്ള ആരോഗ്യ പദ്ധതിക്കായി പണം ലാഭിക്കാൻ നിങ്ങൾ വ്യക്തികളെ അനുവദിക്കുന്നു ചികിത്സാ ചെലവുകൾക്കായി നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് നിങ്ങൾ അടയ്ക്കുന്നതാണ് ഡിഡക്റ്റബിൾ കൂടാതെ അത് മൊത്തം ചെലവുകളുടെ ഒരു ശതമാനമാണ് നിങ്ങൾ എങ്ങനെയാണ് ആരോഗ്യ സംരക്ഷണ ആനുകൂല്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യ ഇൻഷുറൻസിനായി ഒരു സ്വയം ധനസഹായ ക്രമീകരണം വികസിപ്പിക്കുക ജോലി ചെയ്യുന്ന രണ്ട് പങ്കാളികളുള്ള കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഏകോപിപ്പിക്കുക നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഒരു സ്വയം ധനസഹായ ക്രമീകരണം ഉണ്ടായിരിക്കാം എത്ര തുക നിക്ഷേപിക്കണമെന്ന് ആളുകൾ തീരുമാനിക്കട്ടെ കൂടാതെ അവരുടെ ആരോഗ്യ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താനുള്ള അവസരം അവർക്ക് നൽകുക തുടർന്ന് ഒരുപക്ഷേ നിങ്ങൾക്ക് അത് പൊരുത്തപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു ശതമാനം നൽകുകയോ ചെയ്യാം ജോലി ചെയ്യുന്ന രണ്ട് പങ്കാളികളുള്ള കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഏകോപിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതായിരിക്കും നിങ്ങൾക്ക് ഒരേ കുടുംബത്തിൽ നിന്ന് രണ്ട് പേരുണ്ടെങ്കിൽ അവർ രണ്ട് ജോലിക്കാരായ ഭാര്യാഭർത്താക്കന്മാരാവണമെന്നില്ല നിങ്ങൾക്ക് ഒരേ കുടുംബത്തിൽ നിന്നുള്ള രണ്ട് പേരുണ്ടെങ്കിൽ അത് അച്ഛനും മകളും അല്ലെങ്കിൽ അമ്മയും മകനും അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ രണ്ട് പങ്കാളികളാവാം ഒരേ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന രണ്ടാളുകൾ പിന്നെ എന്തുകൊണ്ട് കുടുംബത്തിന് കുറച്ചുകൂടി കൊടുത്തുകൂടാ അതിനാൽ ജീവനക്കാർക്കായി ഒരു വെൽനസ് പ്രോഗ്രാം വികസിപ്പിക്കുക ഫിറ്റായി തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക അത് നിങ്ങളുടെ ചെലവുകൾ കുറയ്ക്കുന്നു കൂടാതെ ജീവനക്കാർക്ക് ഉയർന്ന ഡിഡക്റ്റബിൾ ഉള്ള ആരോഗ്യ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുക നിങ്ങൾക്ക് വിവിധ ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കാം നിങ്ങൾക്ക് ദീർഘകാല വൈകല്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം അതിനാൽ ദീർഘകാല വൈകല്യ ഇൻഷുറൻസ് അവശ്യ ജോലി ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്ത വികലാംഗരായ ജീവനക്കാർക്ക് പകരം വരുമാനം നൽകുന്നു കൂടാതെ പണം ലഭിച്ചുള്ള അവധി അസുഖ അവധി അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ ശമ്പളം ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് അവധി അധിക പരിശീലനത്തിനും വേണ്ടിയായിരിക്കാം അത് അവധിക്കാലമാകാം അത് സെവർൻസ് വേതനമാകാം അത് അവധി ദിവസങ്ങളും മറ്റ് പണമടച്ചുള്ള അവധിയും ആകാം നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ജീവനക്കാരുടെ സേവനങ്ങൾ ഉണ്ടായിരിക്കാം ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെയോ വ്യക്തിഗത ജീവിതത്തിന്റെയോ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് നൽകുന്ന സേവനങ്ങളാണ് ഇവ അതിനാൽ ഈ സേവനങ്ങൾ ശിശു സംരക്ഷണം ഹെൽത്ത് ക്ലബ് അംഗത്വങ്ങൾ സബ്സിഡിയുള്ള കമ്പനി കഫറ്റീരിയകൾ കമ്പനി ഉൽപ്പന്നങ്ങളുടെ കിഴിവുകൾ മുതലായവ ആകാം അതിനാൽ നിങ്ങൾ ഒരു മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷനായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ നിർമ്മിക്കുന്നതെന്തും നിങ്ങൾക്ക് കനത്ത കിഴിവുകൾ നൽകും അല്ലെങ്കിൽ നിങ്ങൾ ഒരു എയർലൈനിനായി ജോലിചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ടിക്കറ്റുകൾ കനത്ത കിഴിവിൽ നൽകാം അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ ആനുകൂല്യങ്ങളുടെ നടത്തിപ്പും വെല്ലുവിളികളും വഴക്കമുള്ള ആനുകൂല്യങ്ങളും ആനുകൂല്യ ആശയവിനിമയവും കൈകാര്യം ചെയ്യും അതിനാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതിന് വളരെ നന്ദി കൂടാതെ അടുത്ത പ്രഭാഷണത്തിൽ ഈ വിഷയത്തിൽ തുടരും